മുൻ പ്രഭാഷണങ്ങളിൽ വ്യവസായ വിപ്ലവം വ്യാവസായിക വിപ്ലവം ഇന്റർനെറ്റ് വിപ്ലവം ഇപ്പോൾ വ്യവസായങ്ങൾ കടന്നുപോകുന്ന വ്യാവസായിക ഇന്റർനെറ്റ് വിപ്ലവം എന്നിവയിലൂടെ നാം കടന്നുപോയി ഇപ്പോൾ സമാന്തര വ്യാവസായിക ഐഒടി വളരെ ജനപ്രിയമായതും നാം കണ്ടു വ്യാവസായിക ഇന്റർനെറ്റ് ആണോ അതോ വ്യാവസായിക IoT ആണോ എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കാമ്പിൽ ഇത് സെൻസിംഗിനെയും പ്രവർത്തനത്തെയും കുറിച്ചാണ് സെൻസിംഗും ആക്ച്വേഷനും വളരെ പ്രധാനമാണ് തുടർന്ന് കണക്റ്റിവിറ്റി ആശയവിനിമയം അനലിറ്റിക്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്നു അതിനാൽ വ്യത്യസ്ത സെൻസറുകൾ സെൻസിംഗ് ആക്ച്വേഷൻ എന്നിവയുടെ ആമുഖ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ വ്യത്യസ്ത സെൻസറുകൾ ഉണ്ട് IoT യുമായി ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത സെൻസറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നിട്ടുണ്ട് വ്യാവസായിക ഐഒടിക്ക് ചില പ്രത്യേക ആവശ്യകതകൾ ഉണ്ട് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ സാധാരണയായി ഉയർന്ന പ്രകടനമുള്ളവയാണ് കൂടുതൽ കൃത്യതയുള്ളതും കൂടുതൽ സമയം പ്രവർത്തിക്കാൻ കഴിവുള്ളവയുമാണ് അതിനാൽ അവ ഉയർന്ന ഗ്രേഡ് മികച്ച പ്രകടനം ഉയർന്നതും സാധാരണയായി അളക്കാവുന്നതുമാണ് കൂടാതെ കൂടുതൽ സമയം പ്രവർത്തിക്കാനും കഴിയും അതിനാൽ വ്യാവസായിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഈ വ്യത്യസ്ത സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും പ്രത്യേകതകൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ വ്യാവസായിക സെൻസിംഗും ആക്ച്വേഷനും ആണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അതിനാൽ നമ്മൾ IoT യെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു റീക്യാപ്പ് പോലെ നമ്മൾ IoT യെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എന്നാൽ വ്യവസായ നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകൾ പരിഗണിക്കുക കൂടാതെ ചില വ്യവസായ നിർദ്ദിഷ്ട ആവശ്യകതകൾ അവിടെയുണ്ട് അവ നിറവേറ്റേണ്ടതുണ്ട് എന്നാൽ IoT യ്ക്കും IoT സെൻസറുകളും ആക്യുവേറ്ററുകളും പ്രധാന സാങ്കേതികവിദ്യകളാണ് അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത ഡാറ്റകളുടെ ശേഖരണത്തിനും സിസ്റ്റത്തിൽ ചലനാത്മകമായി വ്യത്യസ്ത മാറ്റങ്ങൾ വരുത്തുന്നതിനും പിന്നിൽ നട്ടെല്ല് രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ ഇവയാണ് സെൻസറുകൾ അടിസ്ഥാനപരമായി IIoT ഡാറ്റയുടെ പ്രാഥമിക ഉറവിടമാണ് വ്യത്യസ്ത തരം ഡാറ്റകൾ ഉണ്ടാകാം അത് വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും സെൻസറുകൾ തന്നെ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സെൻസറുകൾ ആകാം വ്യാവസായിക സാഹചര്യങ്ങളിൽ ഈ സെൻസറുകൾ വിന്യസിക്കേണ്ടതുണ്ട് സാധാരണയായി ധാരാളം അനലോഗ് ഡാറ്റയും ഡിജിറ്റൽ ഡാറ്റയും ധാരാളം ഡാറ്റയും മാത്രമല്ല സ്വഭാവത്തിൽ വലിയ ഡാറ്റയും ശേഖരിക്കാൻ പോകുന്നു അതിനാൽ മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ സംസാരിച്ച ഈ വലിയ ഡാറ്റ നിങ്ങൾ വ്യവസായ സ്കെയിൽ സെൻസറുകൾ വിന്യസിക്കുകയും പരസ്പരം വ്യത്യസ്ത മെഷീനുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ വലിയ ഡാറ്റ പ്രോപ്പർട്ടികൾ അടിസ്ഥാനപരമായി വരാൻ പോകുന്നു സെൻസറുകൾ ശേഖരിക്കുന്ന ഡാറ്റ ഇതുപയോഗിച്ച് പവർ ചെയ്യേണ്ടതുണ്ട് ബുദ്ധിശക്തികൊണ്ട് അധികാരപ്പെടുത്തേണ്ടിവരും അതിനാൽ ഈ പ്രോസസ്സിംഗിൽ നിന്ന് വിവരങ്ങളും അറിവും നേടുന്നതിന് ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് സാധാരണ സാഹചര്യങ്ങളിൽ തത്സമയം ശേഖരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ചെയ്യുന്ന പ്രോസസ്സിംഗ് വിശകലനം എന്നിവയ്ക്ക് ശേഷം ചില തത്സമയ ആക്ച്വേഷനുകളും ചെയ്യാവുന്നതാണ് നിയന്ത്രണ തീരുമാനങ്ങൾക്ക് ശേഷം ഈ പ്രവർത്തനം നടത്താവുന്നതാണ് വ്യവസായത്തിന് സംവേദനക്ഷമത ആവശ്യമാണ് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന ഈ സെൻസറുകൾ ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയകളുടെ ഗുണനിലവാരം മൊത്തത്തിലുള്ള സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുന്നതിനും സഹായിക്കും യന്ത്രസാമഗ്രികൾ വ്യാവസായിക നിലവാരത്തിനായുള്ള ആവശ്യകതകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസനീയമായ സെൻസിംഗ് കുറഞ്ഞ ചെലവ് സെൻസിംഗ് ആക്ച്വേഷൻ പെർപെച്വൽ സെൻസർ ആക്യുവേറ്റർ നെറ്റ്വർക്ക് കണക്റ്റിവിറ്റി എന്നിവ ആവശ്യമാണ് അതിനാൽ ഈ ആവശ്യകതകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് കുറഞ്ഞ ചിലവ് ഉണ്ടായിരിക്കണം എന്നതാണ് എന്നാൽ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള വിശ്വസനീയമായ സെൻസറുകൾ കുറഞ്ഞ ചിലവ് കാരണം ഞങ്ങൾ ഈ വ്യത്യസ്ത സെൻസറുകൾ വലിയ അളവിൽ ഉപയോഗിക്കാൻ പോകുന്നു ഒരു സെൻസർ വളരെ ചെലവേറിയതായിരിക്കരുത് നിങ്ങൾക്കത് ഒരു മെഷീനിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ നിങ്ങൾ ഇപ്പോൾ വ്യാവസായിക ഇൻറർനെറ്റിലോ IIoTയിലോ ഉള്ളതിനാൽ ഈ വ്യത്യസ്ത മെഷീനുകളും തത്ഫലമായി ഈ വ്യത്യസ്ത സെൻസറുകളും ഇന്റർനെറ്റ് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഈ സെൻസറുകൾ തന്നെ നിങ്ങൾക്ക് ആവർത്തിക്കാനും സ്കെയിൽ അപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവ വളരെ വിലകുറഞ്ഞതായിരിക്കണം അല്ലെങ്കിൽ വ്യത്യസ്ത മെഷീനുകളിൽ വിന്യസിക്കാൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒന്നിലധികം സെൻസറുകൾ ഉണ്ടാകില്ല അതിനാൽ അവ കുറഞ്ഞ ചെലവിൽ ആയിരിക്കണം ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ളതിനാൽ ഈ സെൻസറുകൾ നിർവ്വഹിക്കേണ്ട അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ മെഷീൻ ഉപയോഗത്തിന്റെ ദീർഘകാലത്തേക്ക് ഈ സെൻസറുകൾ പ്രവർത്തിക്കേണ്ടിവരും അവ വിശ്വസനീയമായിരിക്കണം കാരണം അവ ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മാത്രമല്ല ആശ്രയിക്കാൻ കഴിയുന്ന ഡാറ്റ എറിയുകയും വേണം അവ കൃത്യവും വിശ്വസനീയവുമായിരിക്കണം അതിനാൽ വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യാവസായിക സംബന്ധിയായ സെൻസറുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഈ ആവശ്യകതകളിൽ ചിലത് ഇവയാണ് അതിനാൽ ഈ വ്യത്യസ്ത സെൻസറുകളിൽ ചിലത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനാൽ ഇവിടെ ഇത് ഒരു തരം ആണ് അതിനാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മൂന്ന് വ്യത്യസ്ത സെൻസറുകൾ കാണിക്കും ഇവ മൂന്ന് വ്യത്യസ്ത ഗ്യാസ് സെൻസറുകളാണ് അതിനാൽ ഇതാണ് കാർബൺ മോണോക്സൈഡ് സെൻസർ തുടർന്ന് നിങ്ങൾക്ക് മീഥേൻ സെൻസർ ഉണ്ട് ഇതാണ് മീഥെയ്ൻ സെൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മീഥെയ്ൻ സെൻസറാണ് ഇതിന്റെ അടിയിൽ മൂന്ന് വ്യത്യസ്ത പിന്നുകൾ ഇതൊരു ഓക്സിജൻ സെൻസറാണ് ഇതാണ് ഓക്സിജൻ സെൻസർ ഇവിടെയും നിങ്ങൾക്ക് കണക്റ്റിവിറ്റി ആവശ്യങ്ങൾക്കായി മൂന്ന് വ്യത്യസ്ത പിന്നുകൾ ഉണ്ട് കണക്റ്റിവിറ്റി ആവശ്യങ്ങൾക്കായി ഈ പിന്നുകൾ ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് മൂന്ന് വ്യത്യസ്ത തരം സെൻസറുകൾ ഉണ്ട് ഇവയുടെ സാമ്പിളുകൾ നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഇവ ഇൻഡസ്ട്രി ഗ്രേഡ് സെൻസറുകളാണ് ഇവയ്ക്ക് ഉയർന്ന പ്രകടനവും ഉയർന്ന കാര്യക്ഷമതയും ഉണ്ട് അവ വളരെ വിശ്വസനീയമാണ് അവ താരതമ്യേന വിലകുറഞ്ഞതാണ് പക്ഷേ അവ വിപണിയിൽ ലഭ്യമായ കുറഞ്ഞ വിലയേക്കാൾ വളരെ വിശ്വസനീയമാണ് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഈ സെൻസർ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി കാണിക്കും ഇതാണ് മീഥെയ്ൻ സെൻസർ അതിനാൽ ഈ മീഥേൻ സെൻസർ അടിസ്ഥാനപരമായി അത് പ്രവർത്തിക്കുന്ന പരിതസ്ഥിതിയിൽ മീഥേൻ സാന്ദ്രത എത്രയാണെന്ന് തുടർച്ചയായി അളക്കുന്നു ഈ മീഥേൻ സെൻസറിന്റെ പ്രവർത്തന താപനില വളരെ വിശാലമായ സ്പെക്ട്രമാണ് ഏകദേശം മൈനസ് 20 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ പ്ലസ് 55 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഈ മീഥേൻ സെൻസറിന് പ്രവർത്തിക്കാൻ കഴിയും ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഭൂഗർഭ ഖനികൾ തുടങ്ങിയ അപകടകരമായ പരിതസ്ഥിതികളിൽ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും വ്യത്യസ്ത സുരക്ഷാ നിർണായക പരിതസ്ഥിതികൾ രൂപകൽപ്പന ചെയ്യുന്നതിനായി വിവിധ സുരക്ഷാ നിർണായക പരിതസ്ഥിതികൾക്കും ഇത് ഉപയോഗിക്കാം മീഥേൻ ശതമാനത്തിന് ഏകദേശം 24 ± 4 മില്ലി വോൾട്ട് സെൻസിറ്റിവിറ്റി ഉണ്ട് അതിനാൽ ഏത് തരത്തിലുള്ള മീഥേൻ സാന്ദ്രത മാറ്റത്തിനും ഇത് വളരെ സെൻസിറ്റീവ് ആണ് അതിനാൽ ഇതാണ് മീഥേൻ സെൻസർ ഇനി നമുക്ക് ഈ സെൻസർ നോക്കാം അത് ഓക്സിജൻ സെൻസർ ആണ് അതിനാൽ ഈ ഓക്സിജൻ സെൻസർ അടിസ്ഥാനപരമായി ഒരു ഇലക്ട്രോകെമിക്കൽ സെൻസറാണ് കോമ്പോസിഷൻ അത് കെട്ടിച്ചമച്ച രീതിയാണ് അത് ഒരു ഇലക്ട്രോകെമിക്കൽ സെൻസറാണ് കൂടാതെ അത് വളരെ കൃത്യവും ഓക്സിജന്റെ സാന്ദ്രതയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടെത്താനും കഴിയും ഇത് തികച്ചും കർക്കശമാണ് തികച്ചും കരുത്തുറ്റതാണ് വ്യത്യസ്ത തീവ്രമായ സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ പാരിസ്ഥിതിക വ്യതിയാനങ്ങളിലും താപനില വ്യതിയാനങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയും കൂടാതെ ഇതിന് ഔട്ട്പുട്ട് സിഗ്നലുമുണ്ട് അത് വായുവിൽ ഏകദേശം 0 02 മില്ലി ആമ്പിയർ ആണ് അതിനാൽ ഇതാണ് മീഥെയ്ൻ സെൻസർ അതിനാൽ ഇതാണ് ഓക്സിജൻ സെൻസർ തുടർന്ന് നമുക്ക് ഈ സാധാരണ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ജനറൽ ഗ്യാസ് സെൻസർ ഉണ്ട് ഇത് കാർബൺ മോണോക്സൈഡ് പോലുള്ള വ്യത്യസ്ത വാതകങ്ങളിലെ മാറ്റങ്ങളോട് വളരെ സെൻസിറ്റീവ് ആണ് ഈ പ്രത്യേക സെൻസറിനുള്ള കാർബൺ മോണോക്സൈഡിന്റെ കണ്ടെത്തൽ പരിധി ഏകദേശം 20 ppm മുതൽ 2000 ppm വരെയാണ് അതിനാൽ കാർബൺ മോണോക്സൈഡിന്റെ സാന്ദ്രത നിരീക്ഷിക്കുന്നതിനും മറ്റും വിവിധ വ്യവസായങ്ങളിലെ കാറുകളിൽ ഇത് ഉപയോഗിക്കാം അതിനാൽ ഇവയെല്ലാം വ്യവസായ ഗ്രേഡ് സെൻസറുകളാണ് ഈ സെൻസറുകൾ വളരെ കൃത്യമാണെന്ന് നിങ്ങൾ കണ്ടതുപോലെ അവ വളരെ സെൻസിറ്റീവ് ആണ് മാത്രമല്ല അവ മനസ്സിലാക്കേണ്ട വാതകത്തിലെ മാറ്റങ്ങളോട് സെൻസിറ്റീവ് ആണ് അവ തികച്ചും കരുത്തുറ്റതും വിശാലമായ താപനില പരിധിയിലും വ്യത്യസ്തമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിലും മറ്റും പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ നൽകുന്നതിനുള്ള ഉയർന്ന തലത്തിലുള്ള നിർദ്ദിഷ്ട ആവശ്യകതകളിൽ ചിലതാണ് ഇവ ഇനി നമുക്ക് മുന്നോട്ട് പോയി സെൻസിംഗ് കൂടുതൽ വിശദമായി വ്യാവസായിക സെൻസിംഗ് നോക്കാം അതിനാൽ വ്യാവസായിക സെൻസിംഗിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പരമ്പരാഗത സെൻസറുകൾ വളരെക്കാലമായി നിലവിലുണ്ട് വീണ്ടും സെൻസറുകൾ പതിറ്റാണ്ടുകളായി നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ അടുത്തിടെ അവ IoT IIoT എന്നിവയുടെ ജനപ്രീതിയോടെ സമീപ വർഷങ്ങളിൽ കൂടുതൽ ജനപ്രിയമായി അതിനാൽ ഒരു വ്യാവസായിക നിയന്ത്രണ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക് ഒരു പ്രക്രിയയുടെ ഓട്ടോമേഷൻ എന്നിവ ലഭിക്കുന്നത് പരമ്പരാഗത സംവേദനത്തിൽ ഉൾപ്പെടുന്നു ചില പ്രത്യേക ആപ്ലിക്കേഷൻ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി കൂടുതൽ നടപടിയെടുക്കുന്നതിന് ചില സെൻസിംഗിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് ഫീഡ്ബാക്ക് ലഭിക്കുന്നു ഈ സാമ്പ്രദായിക സെൻസറുകൾ ഞാൻ പറഞ്ഞതു പോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ഈ സെൻസറുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി അവയെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച് അവയെ കൂടുതൽ ബുദ്ധിശക്തിയുള്ളതാക്കുന്നു ഈ സെൻസറുകളുടെ വിന്യാസത്തിൽ നിന്ന് വലിയ തോതിൽ മൂല്യം നേടുകയും വ്യവസായങ്ങളിൽ പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു ഇതാണ് IIoT യെ കൂടുതൽ ആവേശകരമാക്കിയത് വിപരീതമായി പരമ്പരാഗത സെൻസറുകളിൽ നിന്ന് സമകാലികമായവ സമീപകാലവയാണ് ഇവ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാം അതിനാൽ വ്യാവസായിക ഇന്റർനെറ്റ് അല്ലെങ്കിൽ വ്യാവസായിക IoT ആപ്ലിക്കേഷനുകൾക്കായി ഈ സെൻസറുകൾ ബന്ധിപ്പിക്കുന്നത് സാധ്യമാണ് ഈ സമകാലിക സെൻസറുകൾ കൂടുതൽ ബുദ്ധിപരമാണ് അവർക്ക് ഉൽപ്പന്ന ആയുസ്സ് ലൂപ്പ് കാര്യക്ഷമത സുരക്ഷ വിശ്വാസ്യത എന്നിവ ഈ വ്യത്യസ്ത ഗുണങ്ങളിൽ ചിലതാണ് എന്നാൽ ഇതെല്ലാം ഏത് സെൻസറിനെ പിന്തുണയ്ക്കുന്നു ആപ്ലിക്കേഷന്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു ആർക്കാണ് ഏത് തരത്തിലുള്ള ആകർഷകമായ പ്രോപ്പർട്ടികൾ ഉള്ളത് ഇതെല്ലാം സെൻസറിന്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഈ സെൻസറുകളെ കൂടുതൽ കഴിവുള്ളതും ബുദ്ധിപരവും ശക്തവുമാക്കുന്നു വിലയും വർദ്ധിക്കുന്നു എന്നാൽ അതേ സമയം മിക്ക ഐഐഒടി ആപ്ലിക്കേഷനുകളിലും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് വളരെ ചെലവേറിയതായിരിക്കരുത് അതിനാൽ പ്രോസസറുമായും ഡാറ്റ നെറ്റ്വർക്കുമായും ആശയവിനിമയം സാധ്യമാക്കുന്നതിന് ചെറിയ മെമ്മറിയും സ്റ്റാൻഡേർഡ് ഫിസിക്കൽ കണക്ഷനും ഉള്ളവയാണ് സ്മാർട്ട് സെൻസറുകൾ ഇത് IEEE 1451 സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇതൊരു സ്മാർട്ട് സെൻസറാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു ചെറിയ മെമ്മറിയും കണക്റ്റിവിറ്റിയും ഉള്ള ഒരു സ്മാർട്ട് സെൻസറിന്റെ നിർവചനത്തെക്കുറിച്ചാണ് അതിനാൽ സ്മാർട്ട് സെൻസറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കോൺഫിഗറേഷനുകൾ ഒരു മൾട്ടി പാരാമീറ്റർ സെൻസിംഗ് യൂണിറ്റ് സാധ്യമാണ് മൾട്ടി പാരാമീറ്റർ സെൻസിംഗ് എന്നാൽ ഒരേ അർത്ഥത്തിൽ വ്യത്യസ്ത പാരാമീറ്ററുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഒരേ സെൻസറുകളിലൂടെ ഒന്നിലധികം പാരാമീറ്ററുകൾ അളക്കാൻ സാധിക്കും അതിനാൽ ഒന്നിലധികം വാതകങ്ങൾ അളക്കാൻ ഒരേ സെൻസർ ഉപയോഗിക്കാം അപ്പോൾ ഞങ്ങൾക്ക് അനലോഗ് ഡിറ്റക്ഷൻ സർക്യൂട്ട് ഡിജിറ്റൽ സിഗ്നൽ കണ്ടീഷനിംഗ് യൂണിറ്റ് ബസിലേക്കുള്ള ഇന്റർഫേസിംഗ് യൂണിറ്റ് എന്നിവയുണ്ട് സ്മാർട്ട് സെൻസറുകൾ കോൺഫിഗർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളാണിവ അതിനാൽ എന്താണ് ഈ മൾട്ടി പാരാമീറ്റർ സെൻസിംഗ് എന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് എന്നാൽ എന്താണ് ഈ അനലോഗ് ഡിറ്റക്ഷൻ സർക്യൂട്ട് അതിനാൽ ഈ സെൻസറുകളിൽ ഭൂരിഭാഗവും അടിസ്ഥാനപരമായി അനലോഗ് സെൻസറുകൾ എന്നാൽ അവരെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നതിന് ഒന്നിലധികം ഇന്റലിജന്റ് സ്റ്റഫ് നേടുന്നതിനും നടപ്പിലാക്കുന്നതിനും നിങ്ങൾ ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഡാറ്റയിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ അനലോഗ് ഡിറ്റക്ഷൻ സർക്യൂട്ട് ആവശ്യമാണ് തുടർന്ന് നിങ്ങൾക്ക് കുറച്ച് ഡിജിറ്റൽ സിഗ്നൽ കണ്ടീഷനിംഗ് യൂണിറ്റ് ആവശ്യമാണ് ഈ ഡിജിറ്റൽ സിഗ്നൽ കണ്ടീഷനിംഗ് യൂണിറ്റ് അനലോഗ് സിഗ്നൽ ശേഖരിച്ച ശേഷം ഡിജിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സിഗ്നലുകളിൽ നിന്ന് ഡിജിറ്റൽ ഡാറ്റ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഡിജിറ്റൈസ് ചെയ്യണം അതിനാൽ നിങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനുമുമ്പ് നിങ്ങൾ ഒരുതരം കണ്ടീഷനിംഗ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ അനലോഗ് സിഗ്നലുകളുടെ കണ്ടീഷനിംഗും ഈ കണ്ടീഷനിംഗും വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് സിഗ്നലുകളുടെ ആംപ്ലിഫിക്കേഷൻ ഫിൽട്ടറിംഗ് തുടർന്ന് ഡിജിറ്റൈസ് ചെയ്യുക അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഡിജിറ്റൽ സിഗ്നൽ കണ്ടീഷനിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനമാണ് തുടർന്ന് നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ബസിലേക്ക് ഇന്റർഫേസിംഗ് യൂണിറ്റ് ഉണ്ട് അതിനാൽ ഈ വ്യത്യസ്ത സെൻസറുകളെ ഇൻഫർമേഷൻ ബസിലേക്ക് ബന്ധിപ്പിക്കാൻ ഈ ഇന്റർഫേസിംഗ് യൂണിറ്റ് നിങ്ങളെ സഹായിക്കും അതിനാൽ നമുക്ക് ഒരു സ്മാർട്ട് സെൻസർ നോഡിന്റെ ആർക്കിടെക്ചർ നോക്കാം ഒരു സ്മാർട്ട് സെൻസർ നോഡിന് സെൻസിംഗ് യൂണിറ്റ് ഉണ്ട് അതിൽ വീണ്ടും ഒരു സെൻസർ ഉണ്ട് ഒരു അനലോഗ് ഡിറ്റക്ഷൻ സർക്യൂട്ട് അവിടെ ഈ സിഗ്നൽ കണ്ടീഷനിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ഘടകം ഉണ്ട് ഈ സിഗ്നൽ കണ്ടീഷണർ അടിസ്ഥാനപരമായി ആംപ്ലിഫിക്കേഷൻ ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ ഫിൽട്ടറിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യും അതിനാൽ സിഗ്നൽ കണ്ടീഷണർ അപ്പോൾ നിങ്ങൾക്ക് ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ പ്രോസസ്സർ എന്നിവയുണ്ട് അതിനാൽ ഈ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്ന ഒന്നാണ് പ്രോസസ്സർ ഈ എല്ലാ കണക്കുകൂട്ടലുകളും ഈ പ്രോസസ്സറിൽ വ്യത്യസ്ത അൽഗോരിതങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു സ്മാർട്ട് സെൻസർ നോഡിലും ഇന്റലിജന്റ് സെൻസർ നോഡുകളിലും വളരെ പ്രധാനമാണ് ഇന്റലിജൻസ് വരുന്നത് അൽഗോരിതം വഴിയാണ് ഈ അൽഗരിതങ്ങൾ അടിസ്ഥാനപരമായി ഈ പ്രോസസറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് മെമ്മറി യൂണിറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത ഘടകങ്ങളുമായി ഇന്റർഫേസ് ചെയ്യുക കൂടാതെ ചില യൂസർ ഇന്റർഫേസ് ഘടകങ്ങൾ നൽകുക അതിനാൽ ഇവയെല്ലാം അവസാനമായി പ്രോസസ്സിംഗിനെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അതിനാൽ അതിനായി ആക്യുവേറ്ററുകൾ ഉണ്ടായിരിക്കും അഭ്യർത്ഥിക്കേണ്ടതുണ്ട് ആരംഭിക്കേണ്ടതുണ്ട് കൂടാതെ ഈ DAC ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ പ്രക്രിയയിൽ സഹായിക്കുന്നതിന് ഇടയിൽ ഇരിക്കും സ്മാർട്ട് സെൻസറുകൾക്ക് ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും താപനില ഈർപ്പം വെളിച്ചം മർദ്ദം തുടങ്ങിയ ഒന്നിലധികം പാരാമീറ്ററുകൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ മൾട്ടി സെൻസിംഗ് ഒരൊറ്റ സെൻസർ നോഡിൽ അളക്കുന്ന ഡാറ്റ ആശയവിനിമയം നടത്തുക ഡാറ്റ കാലിബ്രേറ്റ് ചെയ്യുക തുടർന്ന് ഡാറ്റയ്ക്ക് നഷ്ടപരിഹാരം നൽകുക സെൻട്രൽ കൺട്രോൾ യൂണിറ്റിലേക്ക് അയയ്ക്കുന്നത് ഒരു സ്മാർട്ട് സെൻസർ നോഡിന്റെ അടുത്ത പ്രധാന പ്രവർത്തനമാണ് എഡി അല്ലെങ്കിൽ ഡിഎ കൺവെർട്ടർ അനലോഗ് ടു ഡിജിറ്റൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ എന്നിവയാണ് മറ്റ് ഘടകം നിരവധി സിഗ്നൽ പ്രോസസ്സിംഗ് രീതികൾ പ്രയോഗിക്കുന്നതിന് അനലോഗ് ഡാറ്റയ്ക്ക് ഡിജിറ്റൽ പരിവർത്തനം ആവശ്യമാണ് കാരണം നിങ്ങൾ ഇത് ഡിജിറ്റൽ ആക്കാത്തിടത്തോളം ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് രീതികൾ പ്രയോഗിക്കാൻ കഴിയില്ല അതിനാൽ വിശ്വസനീയവും കൃത്യവുമായ ഡാറ്റ ലഭിക്കുന്നതിന് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് രീതികൾ പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ അടുത്ത പ്രധാന പ്രവർത്തനം സ്വയം തീരുമാനമെടുക്കലാണ് ഇത് ഒരു സ്മാർട്ട് സെൻസർ ആയതിനാൽ ഒരു ഇന്റലിജന്റ് സെൻസർ അത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യണം അതിനാൽ അത് സ്വയം തീരുമാനിക്കേണ്ടതുണ്ട് അതിന് സ്വയം നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ ആംബിയന്റ് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിന് സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഈ സ്മാർട്ട് സെൻസറിൽ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസറിന്റെ സഹായത്തോടെ ഇത് സാധ്യമാകും അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവ് ഉണ്ട് ഒരു സ്മാർട്ട് സെൻസറിനെക്കുറിച്ച് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കാരണം ചെലവ് കുറച്ചില്ലെങ്കിൽ ഈ വ്യത്യസ്ത സെൻസറുകളുടെ കൂടുതൽ പകർപ്പുകൾ ലഭിക്കുന്നതിനും അത് കൂടുതൽ പകർത്തുന്നതിനും നിർമ്മിക്കുന്നതിന് പകർപ്പെടുക്കാനും സ്കെയിൽ അപ്പ് ചെയ്യാനും കഴിയില്ല അതിനാൽ പാൽ സംസ്കരണ യൂണിറ്റിന്റെ ഉദാഹരണം നമുക്ക് പരിഗണിക്കാം നിങ്ങൾ ഒരു സ്മാർട്ട് പാൽ പാക്കേജിംഗ് യൂണിറ്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് പറയാം ഒരു സ്മാർട്ട് പാൽ പാക്കേജിംഗ് യൂണിറ്റിലെ സെൻസിംഗിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി സംസാരിക്കാം അതിനാൽ ഒരു പാൽ പാക്കേജിംഗ് യൂണിറ്റിൽ നിങ്ങൾ ഔട്ട്ലെറ്റ് ടാബിന് അനുസൃതമായി സെൻസറുകൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ സെൻസറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ഇംപെല്ലറുകൾ ഉണ്ടാകും പാൽ നീങ്ങുമ്പോൾ ഈ ഇംപെല്ലറുകൾ കറങ്ങും അതിനാൽ ഇംപെല്ലറുകൾ ഇത് വളരെ വൃത്താകൃതിയിലുള്ള ഒന്നാണെന്നും അതിന്റെ ഉപരിതലത്തിൽ കുറച്ച് ഗ്രോവ് ബ്ലേഡുകളും മറ്റും ഉണ്ടെന്നും നിങ്ങളിൽ ഭൂരിഭാഗവും ഇതിനകം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ പാൽ പോലുള്ള കുറച്ച് ദ്രാവകം ഒഴുകുമ്പോൾ അത് അതിനനുസരിച്ച് കറങ്ങാൻ പോകുന്നു അതിനാൽ പാൽ നീങ്ങുമ്പോൾ ഇംപെല്ലർ കറങ്ങുകയും കൺട്രോൾ യൂണിറ്റിലേക്ക് വൈദ്യുത സിഗ്നൽ അയയ്ക്കുകയും ചെയ്യുന്നു കൺട്രോളർ ദ്രാവക പ്രവാഹത്തിന്റെ അളവ് വ്യാഖ്യാനിക്കുകയും പരിധിയിലെത്തുമ്പോൾ നിർത്തുകയും ചെയ്യും അതിനാൽ ഇവിടെ പരാമർശിച്ചിരിക്കുന്നതുപോലുള്ള വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ പിന്തുണയ്ക്കുന്ന സെൻസറുകളും ആക്യുവേറ്ററുകളും വ്യവസായ സ്കെയിൽ ചെയ്യുന്ന വ്യത്യസ്ത സെൻസറുകളുണ്ട് Zephyr Ubuntu Opensuse Ublinux Archlinux Androidthing ഇവ സ്മാർട്ട് സെൻസറുകളിലും ആക്യുവേറ്ററുകളിലും ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ചിലതാണ് സ്മാർട്ട് സെൻസിംഗിന്റെയും ആക്ച്വേഷന്റെയും ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ഭാഷകളാണ് സി സി പ്ലസ് പ്ലസ് പൈത്തൺ ജാവ ലുവ കൂടാതെ മറ്റ് നിരവധി ഭാഷകളും സ്മാർട്ട് സെൻസിംഗ് ആക്ച്വേഷൻ എൻവയോൺമെന്റുകളിലും പ്രോഗ്രാമിംഗിലും ഉപയോഗിക്കാൻ സമീപ വർഷങ്ങളിൽ വരുന്നു ആ പരിതസ്ഥിതികൾ അതിനാൽ പ്രോഗ്രാമിംഗ് ആവശ്യത്തിനായി വ്യത്യസ്ത ഉപകരണ ലൈബ്രറികളും ലഭ്യമാണ് ഇന്റൽ IoT ഉപകരണ ലൈബ്രറി അത്തരത്തിലുള്ള ഒരു ലൈബ്രറിയാണ് അതിൽ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ഗ്നു ലിനക്സ് പ്ലാറ്റ്ഫോമിലെ ആശയവിനിമയത്തിനുള്ള താഴ്ന്ന നിലയിലുള്ള അസ്ഥികൂട ലൈബ്രറിയായ MRAA ഘടകമാണ് ഒന്ന് സെൻസറുകളിലേക്കുള്ള എളുപ്പത്തിലുള്ള കണക്റ്റിവിറ്റിക്കായി ഉയർന്ന തലത്തിലുള്ള API കൾ നൽകുന്ന അടിസ്ഥാനപരമായി മറ്റൊരു ഘടകമുണ്ട് കൂടാതെ ആപ്ലിക്കേഷനുകൾ നിയന്ത്രിക്കാനും UPM സഹായിക്കുന്നു ഈ UPM MRAA ഒരുമിച്ച് വ്യവസായ ഗ്രേഡ് സെൻസിംഗിനെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ വ്യാവസായിക ഉപയൂണിറ്റുകളിലെ യൂട്ടിലിറ്റി മെഷർമെന്റ് പ്രൊഡക്ഷൻ ഉൽപ്പന്ന പരിശോധന പാക്കേജിംഗ് ഷിപ്പിംഗ് വ്യാവസായിക സെൻസറുകളുടെ ഈ യൂട്ടിലിറ്റികളിൽ ചിലതും വിവിധ വ്യാവസായിക ഉപയൂണിറ്റുകളിലെ അവയുടെ ഉപയോഗവുമാണ് ഏത് സെൻസറിന്റെയും കാലിബ്രേഷൻ വളരെ പ്രധാനമാണ് വ്യത്യസ്തമായ ക്രമീകരണം പിശകുകൾ പുനഃക്രമീകരിക്കൽ നീക്കം എന്നിവയിലൂടെ ഒരു സെൻസിംഗ് സിസ്റ്റത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് കാലിബ്രേഷൻ നടത്തേണ്ടതുണ്ട് കാലിബ്രേഷൻ നടത്തേണ്ടതുണ്ട് കാരണം ചില സെൻസറുകൾ സമയം കടന്നുപോകുമ്പോൾ അതേ രീതിയിൽ പ്രവർത്തിക്കില്ല അതിനാൽ നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്യുകയും ഒരു സെൻസർ വീണ്ടും കാലിബ്രേറ്റ് ചെയ്യുകയും വേണം ഇൻഡസ്ട്രി ഗ്രേഡ് സെൻസറുകൾ കാലിബ്രേഷൻ ശ്രദ്ധിക്കുന്നതിനായി വളരെ സങ്കീർണ്ണമായ സിഗ്നൽ പ്രോസസ്സിംഗ് അൽഗോരിതങ്ങളും ഓൺ ബോർഡ് സർക്യൂട്ടറിയും ഉപയോഗിക്കുന്നു അതിനാൽ ഒരു സിസ്റ്റത്തിലെ സെൻസറുകൾ കാലിബ്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് കൂടാതെ കാലിബ്രേഷൻ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാൻഡേർഡ് റഫറൻസും ആവശ്യമാണ് കാരണം സെൻസർ എന്താണ് ചെയ്യേണ്ടതെന്നും യഥാർത്ഥ അളവ് എത്രയായിരിക്കണം എന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം സ്റ്റാൻഡേർഡ് റഫറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാലിബ്രേഷൻ ചെയ്യാൻ കഴിയില്ല സ്റ്റാൻഡേർഡ് വ്യത്യാസം ഉണ്ടായിരിക്കണം അപ്പോൾ ശരിയായ കാലിബ്രേഷൻ രീതികൾ ഉപയോഗിക്കേണ്ടിവരും ആവശ്യമെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് ചില സെൻസറുകൾ കാലക്രമേണ അതേ രീതിയിൽ പെരുമാറുന്നില്ല എന്നതാണ് അതിനാൽ അവ വീണ്ടും കാലിബ്രേറ്റ് ചെയ്യേണ്ടിവരും വ്യാവസായിക സെൻസറുകൾ വ്യാവസായിക സെൻസറുകൾ എന്നിവയുടെ ഉദാഹരണങ്ങൾ നാവിഗേഷൻ വ്യവസായത്തിലും ട്രാക്കിംഗിനും മറ്റും ഉപയോഗിക്കാം ട്രാക്കിംഗ് ആവശ്യങ്ങൾക്കും ഷിപ്പ്മെന്റുകൾ ട്രാക്കുചെയ്യുന്നതിനും ലോജിസ്റ്റിക്സ് ട്രാക്കുചെയ്യുന്നതിനും ട്രക്കുകൾ ട്രാക്കുചെയ്യുന്നതിനും നാവിഗേഷൻ വ്യവസായത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് ജിപിഎസ് അടിസ്ഥാനമാക്കിയുള്ള സെൻസറുകൾ കാർഷിക വ്യവസായങ്ങളിൽ മണ്ണിന്റെ അവസ്ഥ മണ്ണിലെ ജലത്തിന്റെ അവസ്ഥ മണ്ണ് ഈർപ്പം മണ്ണിലെ ജലനിരപ്പ് വ്യത്യസ്ത കാലാവസ്ഥാ പാരാമീറ്ററുകൾ പിന്നെ വളത്തിന്റെ ഉള്ളടക്കം പോഷകത്തിന്റെ അളവ് എന്നിങ്ങനെയുള്ള മറ്റ് പാരാമീറ്ററുകൾ നിരീക്ഷിക്കാൻ സ്മാർട്ട് സെൻസറുകൾ ഉപയോഗിക്കാം ചെടികൾക്ക് ഉപയോഗിക്കേണ്ട മണ്ണ് അതിനാൽ ഇത് സ്മാർട്ട് സെൻസറുകളുടെ കാർഷിക ഉപയോഗമാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും സാധാരണ പോലെയുള്ള വ്യത്യസ്ത സെൻസറുകളിലും ഈ പൾസ് ഓക്സിമീറ്റർ സെൻസർ പോലെയുള്ള വ്യത്യസ്ത ബയോസെൻസറുകൾ ശരീര താപനില സെൻസറുകൾ എന്നിവ ഉപയോഗിക്കാം അതുപോലെ ECG EMG EEG എന്നിവ പരമ്പരാഗതവും പരമ്പരാഗതവുമായ വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിക്കാം എന്നാൽ ഇപ്പോൾ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾക്കായി ചില മികച്ച സെൻസറുകളും വന്നിട്ടുണ്ട് അടിസ്ഥാനപരമായി വിഴുങ്ങാൻ കഴിയുന്ന സ്മാർട്ട് ഗുളികകൾ ഉണ്ട് ഈ ഗുളികകൾ മനുഷ്യ രക്തചംക്രമണ സംവിധാനത്തിലേക്ക് പോകുന്നു അവർ അയയ്ക്കുന്നു അവർ മനസ്സിലാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹ്യൂമൻ ഫിസിയോളജിക്കൽ പാരാമീറ്ററിനെ അവർ മനസ്സിലാക്കുന്നു തുടർന്ന് അടിസ്ഥാനപരമായി ആ ഫിസിയോളജിക്കൽ പാരാമീറ്ററുകൾ വയർലെസ് ആയി അവർ ആ പാരാമീറ്ററുകൾ കൂടുതൽ നിരീക്ഷണത്തിനായി ഡോക്ടർമാർക്ക് അയയ്ക്കാൻ പോകുന്നു ആശുപത്രികളിലെ സ്മാർട്ട് ബെഡുകളിൽ രോഗി താഴെ വീഴുന്നത് തടയുന്ന സെൻസറുകൾ ഉപയോഗിക്കുകയും രോഗികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ചലനം സംശയാസ്പദമായ ചലനം എന്നിവയെക്കുറിച്ച് റിപ്പോർട്ട് അയയ്ക്കുകയും ചെയ്യുന്നു റീട്ടെയിൽ വ്യവസായത്തിൽ വ്യാവസായിക സെൻസറുകളും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് RFID ട്രാക്കിംഗ് ചിപ്പുകൾ GPS IoT എന്നിവ ഉപയോഗിച്ച് സാധ്യമാക്കിയ ഷിപ്പ്മെന്റുകളുടെ ട്രാക്കിംഗ് ലൊക്കേഷൻ ഷോപ്പിംഗ് കാർട്ടിലെ സെൻസറുകളും വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ സൂപ്പർമാർക്കറ്റുകളിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ മോഷണം പോകുന്നത് ഒഴിവാക്കാനും കഴിയും അതിനാൽ ഈ സെൻസറുകളുടെ വ്യത്യസ്ത കളിക്കാർ ഉണ്ട് വ്യത്യസ്ത തരം സെൻസറുകൾ വികസിപ്പിക്കുന്ന സെൻസർ നിർമ്മാതാക്കൾ അവിടെയുണ്ട് നിങ്ങൾക്ക് DTS Bosch Honeywell OMEGA എന്നിവയുണ്ട് ഇവ സാധാരണ സെൻസർ നിർമ്മാതാക്കളിൽ ചിലതാണ് ഇതുപോലെ വ്യത്യസ്ത തരം സെൻസറുകൾ നിർമ്മിക്കുന്ന ആഗോളതലത്തിൽ മറ്റ് വ്യത്യസ്ത സെൻസർ നിർമ്മാതാക്കൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരേ സമയം സെൻസിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആക്ച്വേഷനെക്കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട് വ്യവസായത്തിൽ ആക്ച്വേഷൻ വളരെ പ്രധാനമാണ് ആക്ച്വേഷൻ പ്ലാറ്റ്ഫോമുകൾ നൽകുന്നതിന് PLC യുടെ ഉപയോഗം വളരെ പ്രധാനമാണ് PLC എന്നത് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളറുകൾ ചില പ്രത്യേക കഴിവുകളുള്ള ചില പ്രത്യേക ഉദ്ദേശ്യ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളാണ് വ്യാവസായിക പ്രക്രിയകൾ വ്യാവസായിക യന്ത്രങ്ങൾ തുടങ്ങിയവ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള പ്രത്യേക കഴിവുകൾ അതിനാൽ ഈ പിഎൽസികൾ ഓട്ടോമേഷൻ ആവശ്യങ്ങൾക്കായി വ്യവസായങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു കൂടാതെ ഈ പിഎൽസികൾ വ്യാവസായിക ഇന്റർനെറ്റ് ഐഐഒടി ആവശ്യകതകൾ എന്നിവ നിറവേറ്റുന്നതിന് കൂടുതൽ വിപുലീകരിക്കാം അതിനാൽ ഒരു സാധാരണ PLC ക്ക് മൂന്ന് വ്യത്യസ്ത മൊഡ്യൂളുകൾ ഉണ്ട് സെൻട്രൽ പ്രോസസറും മെമ്മറിയും അടങ്ങുന്ന സിപിയു മൊഡ്യൂൾ തുടർന്ന് നിങ്ങൾക്ക് പവർ സപ്ലൈ മൊഡ്യൂൾ ഉണ്ട് പേര് എല്ലാം പറയുന്നു ഇത് മുഴുവൻ സർക്യൂട്ടറിക്കും വൈദ്യുതി നൽകുന്നു കൂടാതെ സെൻസറുകളെയും ആക്യുവേറ്ററുകളെയും അടിസ്ഥാനപരമായി ബന്ധിപ്പിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ ഈ PLC യുടെ പ്രവർത്തനം എങ്ങനെയാണ് അതിനാൽ ഒരു സാധാരണ PLC സിസ്റ്റത്തിന്റെ വാസ്തുവിദ്യയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ ഒരു സാധാരണ PLC സിസ്റ്റത്തിന് മെമ്മറി ഉണ്ട് കൂടാതെ ഈ PLC കൾ പ്രവർത്തിപ്പിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ഇവിടെയുള്ള ഇൻപുട്ട് അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട് ഈ ഇൻപുട്ട് ഔട്ട്പുട്ടിലൂടെ യഥാർത്ഥ ലോകവുമായുള്ള ഇടപെടൽ ഉണ്ട് അതിനാൽ വാസ്തവത്തിൽ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഘടകം യഥാർത്ഥ ലോകവുമായുള്ള ഇടപെടലിനായി വ്യത്യസ്ത പാരാമീറ്ററുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് വ്യത്യസ്ത സെൻസറുകളെ ആക്യുവേറ്ററുകളെ ബന്ധിപ്പിക്കുന്നു ഇവ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ തരത്തിലാകാം അടിസ്ഥാനപരമായി സിപിയുവും മെമ്മറിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനം സംഭവിക്കുന്നു ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്കുള്ള മെമ്മറി കൂടാതെ ഇൻപുട്ട് ഔട്ട്പുട്ടിനും സിപിയുവിനും ഇടയിൽ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവ ഡാറ്റ അയയ്ക്കാൻ പോകുന്നു ആദ്യം നമ്മൾ ഈ മെമ്മറി അയയ്ക്കാൻ പോകുന്നത് വിലാസം അയയ്ക്കാൻ പോകുന്നു ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് സിപിയുവിലേക്കും ഡാറ്റ അയയ്ക്കാം അനുയോജ്യമായ നിയന്ത്രണ സിഗ്നലുകൾ അയച്ചുകൊണ്ട് സിപിയു നിയന്ത്രിക്കാനും സാധിക്കും ഈ നിയന്ത്രണ സിഗ്നലുകൾ ടേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് വരാം അതിനാൽ ഇത് ഒരു സാധാരണ PLC യുടെ വാസ്തുവിദ്യയിലെ വ്യത്യസ്ത ഘടകങ്ങളുടെ ഒരു ഏകദേശ രേഖാചിത്രമാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി ഒരു PLC യിൽ സംഭവിക്കുന്ന വ്യത്യസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം PLC അടിസ്ഥാനപരമായി ഈ മെഷീനുകളിൽ മിക്കതിലും PLC വ്യത്യസ്ത ലൂപ്പുകളിലൂടെ കടന്നുപോകുന്നു സ്കാൻ സൈക്കിൾ PLC സ്കാൻ സൈക്കിൾ എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് അതിനാൽ സ്കാൻ സൈക്കിളിൽ അടിസ്ഥാനപരമായി ഈ ലൂപ്പിംഗ് സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആദ്യം സൈക്കിൾ ആരംഭിക്കുകയും വ്യത്യസ്ത പാരാമീറ്ററുകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു സമയം പോലുള്ള വ്യത്യസ്ത പാരാമീറ്ററുകൾ നിരീക്ഷിക്കുന്നു തുടർന്ന് നിങ്ങൾ ഇൻപുട്ട് മൊഡ്യൂളിൽ നിന്നും ഇൻപുട്ട് മൊഡ്യൂളിൽ നിന്നും ഡാറ്റ വായിക്കുകയും ഇൻപുട്ട് സ്റ്റാറ്റസ് പരിശോധിക്കുകയും ചെയ്യുന്നു സൈക്കിളിലെ അടുത്ത കാര്യം ആപ്ലിക്കേഷൻ ഉപയോക്തൃ ആപ്ലിക്കേഷനുകൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് CPU അടിസ്ഥാനപരമായി വ്യത്യസ്ത ജോലികൾ കണ്ടുപിടിക്കുന്നു അവസാനമായി ഔട്ട്പുട്ട് എഴുതുന്നു അടിസ്ഥാനപരമായി ഡാറ്റ ഔട്ട്പുട്ട് മൊഡ്യൂളിലേക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതിനാൽ അതിനെ ഒരു ചക്രം എന്ന് വിളിക്കുന്നു അവ ചെയ്തുകഴിഞ്ഞാൽ മെഷീൻ പ്രവർത്തിക്കുന്നത് തുടരുന്നത് വരെ നിങ്ങൾ മറ്റൊരു ചുരത്തിലൂടെ കടന്നുപോകും അതിനാൽ ഈ ചക്രം അടിസ്ഥാനപരമായി ഈ ജോലികളെല്ലാം ഈ വശത്തിലൂടെ കടന്നുപോകുകയും തുടക്കം മുതൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു PLC സ്കാൻ സൈക്കിൾ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് പിഎൽസിയിൽ ഈ ലൂപ്പ് വളരെ പ്രധാനമാണ് അവർ തുടർച്ചയായി അവർ നിർവ്വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്തും തുടർച്ചയായി ചെയ്യാൻ അവർ സ്റ്റഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ വീണ്ടും പിന്നോട്ട് പോയി കുറച്ച് മുന്നോട്ട് നോക്കാം അതിനാൽ ഈ PLC കൾ SCADA സിസ്റ്റങ്ങൾ എന്നറിയപ്പെടുന്നതിൽ വളരെ പ്രധാനമാണ് അതിനാൽ വ്യവസായ ആപ്ലിക്കേഷനുകളിൽ SCADA വളരെ പ്രധാനമാണ് SCADA അടിസ്ഥാനപരമായി സൂപ്പർവൈസറി കൺട്രോൾ ഡാറ്റ അക്വിസിഷൻ എന്നിവയെ സൂചിപ്പിക്കുന്നു കൂടാതെ ഇത് അടിസ്ഥാനപരമായി ഒരു വ്യാവസായിക നിയന്ത്രണ സംവിധാനമാണ് ഒരു നൂതന വ്യാവസായിക നിയന്ത്രണ സംവിധാനമാണ് അതിന് വിവിധ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇൻഡസ്ട്രി ഗ്രേഡ് SCADA സിസ്റ്റങ്ങളുടെ സഹായത്തോടെ പ്രോസസ്സിംഗ് നിരീക്ഷണം ഡാറ്റ വിശകലനം എല്ലാം ഒരേ സമയം ചെയ്യാൻ കഴിയും ഈ സംവിധാനങ്ങൾ അടിസ്ഥാനപരമായി വ്യത്യസ്ത സൈറ്റുകളിൽ നിന്നും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഡാറ്റ ശേഖരിക്കും കൂടുതൽ പ്രോസസ്സിംഗിനായി ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക അതിനാൽ സാധാരണയായി ജല വ്യവസായങ്ങൾ എണ്ണ വ്യവസായങ്ങൾ വൈദ്യുതി ഉൽപാദന വ്യവസായങ്ങൾ അവയെല്ലാം SCADA അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു SCADA യ്ക്ക് വ്യത്യസ്ത ഘടകങ്ങളുണ്ട് അതിനാൽ ഒരു സൂപ്പർവൈസറി സംവിധാനമുണ്ട് ഒരു മനുഷ്യ യന്ത്ര സംവിധാനമുണ്ട് ഒരു റിമോട്ട് ടെർമിനൽ യൂണിറ്റ് ഘടകം ഉണ്ട് ഒരു ആശയവിനിമയ ഇന്റർഫേസ് സിസ്റ്റമോ ഘടകമോ ഉണ്ട് SCADA പ്രോഗ്രാമിംഗ് മറ്റൊന്നാണ് അവസാനത്തേത് ഞാൻ മുമ്പ് സംസാരിച്ച ഈ PLC ആണ് അതിന്റെ വാസ്തുവിദ്യയുടെ ഏകദേശ രേഖാചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു ഈ പിഎൽസി സൈക്കിളിനെ കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു ഈ പിഎൽസി മെഷീൻ പ്രവർത്തനം തുടരുന്നത് വരെ സൈക്കിളിൽ ജോലികൾ തുടർച്ചയായി ചെയ്യപ്പെടുന്ന ജോലികൾ തുടരുന്നു അതിനാൽ വ്യാവസായിക നിയന്ത്രണം ഈ വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ വ്യത്യസ്ത സെൻസറുകൾ വ്യത്യസ്ത ആക്യുവേറ്ററുകൾ പിഎൽസിയുടെ SCADA എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതും മറ്റും ഉപയോഗിച്ച് ചെയ്യാനാകും കൂടാതെ വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും ഉപയോഗിക്കുന്നു വ്യത്യസ്ത യന്ത്രസംവിധാനങ്ങളെ ബന്ധിപ്പിക്കുന്ന വ്യവസായ സ്കെയിലിൽ ഞങ്ങൾക്ക് ഒരു വയർലെസ് സെൻസറും ആക്യുവേറ്റർ ശൃംഖലയും ഉണ്ട് ഈ വ്യത്യസ്ത യന്ത്രസംവിധാനങ്ങളുടെ വ്യത്യസ്ത മോണിറ്ററിംഗ് പ്രവർത്തനങ്ങൾ നിർവ്വഹിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു മനുഷ്യരും യന്ത്രങ്ങളുമായി സംസാരിക്കുന്നു അതിനാൽ ഈ വ്യത്യസ്ത ഇടപെടലുകളെല്ലാം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും മറ്റും കഴിയും വയർലെസ് സെൻസറിന്റെയും ആക്യുവേറ്റർ നെറ്റ്വർക്കിന്റെയും ഉപയോഗത്തിന്റെ പ്രയോജനം ഇതുവരെ കണ്ടതുപോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നതാണ് സെൻസറുകൾ സാധാരണമാണ് നിങ്ങൾക്ക് സെൻസറുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ ആക്യുവേറ്ററുകൾ കൈവശം വച്ചാൽ സെൻസറുകളും ആക്യുവേറ്ററുകളും വിന്യസിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ നിങ്ങൾ സെൻസറുകളും ആക്യുവേറ്ററുകളും വിന്യസിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെൻസറുകൾ പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന തരത്തിൽ നെറ്റ്വർക്ക് ചെയ്യാനാകും സിസ്റ്റം ആശയവിനിമയ പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് എന്നിവ സ്വയം സംഘടിപ്പിക്കാൻ കൂടാതെ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ചില അടിസ്ഥാന സൌകര്യങ്ങളും ഉണ്ട് അത് ഉപയോഗിക്കാനും കഴിയും മൊത്തത്തിൽ ഈ വയർലെസ് സെൻസറും ആക്യുവേറ്റർ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യകളും കുറഞ്ഞ വിലയാണ് അതിനാൽ സമഗ്രമായി ഈ കിണർ സെൻസറാണ് വ്യവസായ സ്കെയിലിൽ ഒരു ആക്യുവേറ്റർ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യ കുറവാണ് അതിനാൽ ഈ വ്യത്യസ്ത ആക്യുവേറ്ററുകളുടെ കാര്യത്തിൽ ഇലക്ട്രോ ഹൈഡ്രോസ്റ്റാറ്റിക് ആക്ച്വേഷൻ സിസ്റ്റം ഉപയോഗിക്കാം ആമുഖ പ്രഭാഷണത്തിൽ ഞങ്ങൾ വ്യത്യസ്ത ആക്യുവേറ്ററുകൾ കണ്ടു വ്യത്യസ്ത തരം ആക്യുവേറ്ററുകൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടു ഇവയിൽ പലതും വ്യവസായങ്ങളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നാൽ ഉയർന്ന തലത്തിലുള്ള ചില ഇൻഡസ്ട്രി സ്പെസിഫിക് ആക്യുവേറ്ററുകളുമുണ്ട് അവ വ്യവസായ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കാനും കഴിയും അതിനാൽ ഈ ഇലക്ട്രോ ഹൈഡ്രോസ്റ്റാറ്റിക് ആക്യുവേറ്റർ പരമ്പരാഗത ഹൈഡ്രോളിക് ഇലക്ട്രോ മെക്കാനിക്കൽ ആക്യുവേറ്ററുകൾക്ക് പകരമാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ അവർക്ക് ഇലക്ട്രിക് ഹൈഡ്രോളിക് ആക്യുവേറ്ററുകളുടെ ചില സംയോജിത ഗുണങ്ങളുണ്ട് അതിനാൽ പ്രധാനമായും ഈ ഇലക്ട്രോ ഹൈഡ്രോസ്റ്റാറ്റിക് ആക്ച്വേഷൻ സിസ്റ്റങ്ങൾക്ക് അവയുടെ ഇലക്ട്രിക് ഹൈഡ്രോളിക് എതിരാളികളുടെ ഗുണങ്ങൾ സംയോജിപ്പിച്ച് ഉയർന്ന ശക്തി ശേഷി ഉയർന്ന ഊർജ്ജ ദക്ഷത വികേന്ദ്രീകൃത ആക്ച്വേഷൻ എന്നിവ ഉണ്ടാകും മുൻകാല പരമ്പരാഗത ആക്യുവേറ്ററുകളേക്കാൾ കൃത്യമായ ഫ്ലോ നിയന്ത്രണം വിപുലമായ ആശയവിനിമയ ശേഷി മെച്ചപ്പെട്ട ഡയഗ്നോസ്റ്റിക്സ് എന്നിവയുള്ള ഇലക്ട്രോ ന്യൂമാറ്റിക് സിസ്റ്റങ്ങളുണ്ട് അൾട്രാ ഹൈ റെസല്യൂഷനും സംയോജിതവും അവയ്ക്ക് ഇലക്ട്രിക് ആക്യുവേറ്ററുകളുടെയും ന്യൂമാറ്റിക് ആക്യുവേറ്ററിന്റെയും സംയോജിത ഗുണങ്ങളുണ്ട് ഈ ആക്യുവേറ്ററുകളെല്ലാം സാധാരണയായി ഹൈബ്രിഡ് ആണ് ഇത് ഇലക്ട്രിക് ന്യൂമാറ്റിക് മറ്റ് വ്യത്യസ്ത ശേഷിയുള്ള മെക്കാനിക്കൽ ആക്യുവേറ്ററുകൾ എന്നിവ സംയോജിപ്പിക്കും അതിനാൽ ഈ കഴിവുകളെല്ലാം കൂടിച്ചേർന്ന് വളരെയധികം മാറുന്നു ഈ ആക്യുവേറ്ററുകളെ കൂടുതൽ വികസിതവും കൂടുതൽ ശക്തവും കൃത്യവുമാക്കുന്നു ഇവർ ചില ആക്യുവേറ്റർ നിർമ്മാതാക്കളാണ് അതിനാൽ ഇൻഡസ്ട്രി സ്കിൽ സെൻസിംഗിന്റെയും ആക്ച്വേഷൻ ലെക്ചറിന്റെയും അവസാനം ഞങ്ങൾ എത്തിച്ചേരുന്നു ഞാൻ ചെയ്തത് ഉപയോഗിക്കാവുന്ന ഈ വ്യത്യസ്ത തരം ഇൻഡസ്ട്രി സ്കെയിൽ സെൻസറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നതാണ് ഞാൻ PLC SCADA അനുബന്ധ വാസ്തുവിദ്യ എന്നിവയെക്കുറിച്ചും സംസാരിച്ചു ഈ അവലംബങ്ങളിൽ ചിലത് ഇവിടെയുണ്ട് നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച ഇവയിൽ ഓരോന്നും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ നിങ്ങളെ സഹായിക്കും ഇൻഡസ്ട്രി ഗ്രേഡ് സെൻസറുകൾക്കും ആക്യുവേറ്ററുകൾക്കും ഉയർന്ന ആവശ്യകതകളുണ്ടെന്ന കാര്യം ഓർക്കുക എന്നാൽ അതേ സമയം അവ കുറഞ്ഞ ചിലവിൽ വരണം നിങ്ങൾക്ക് ചെലവ് കുറഞ്ഞ സെൻസറുകളും ആക്യുവേറ്ററുകളും ഇല്ലെങ്കിൽ വ്യവസായങ്ങളിൽ പോലും അവ വിന്യസിക്കാൻ ആരും പണം നൽകില്ല കാരണം വ്യവസായങ്ങളിലെ ഈ സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും വില കൂടുതലാണെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിലയും പരോക്ഷമായി വർദ്ധിക്കാൻ പോകുന്നു അത് ഒരു വ്യവസായവും ഉടനടി ആഗ്രഹിക്കുന്ന ഒന്നല്ല ഇവ വ്യത്യസ്തമായ റഫറൻസുകളാണ് ഇതോടെ ഞങ്ങൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു